ഈ സർക്യൂട് ൽ നമുക്ക് കണ്ടു പിടിക്കേണ്ടത് i ഉം v0 യും ആണ് ഇവിടെ എനിക്ക് v0 കണ്ടു പിടിക്കുക പിന്നെ ഇവിടെ i ഈ വോൾടേജ് v0എന്നത് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നു അത് ഈ R2 Ω റെസിസ്റ്റർ നു കുറുകെ ആണ് പിന്നെ ഇതാണ് തന്നിരിക്കുന്ന സർക്യൂട് ഇത് ഒരു സീരീസ് പവർ സർക്യൂട് ആണ് പിന്നെ ഇത് ഒരു കറന്റ് സോഴ്സ് ഇതൊരു ഡിപെൻഡന്റ് കറന്റ് സോഴ്സ് ആണ് അതിന്റെ കറന്റ് എന്നത് 0 5v0 ആണ് ഈ കറന്റ് മനസ്സിലാക്കാൻ ആയി നോക്കുക ഇവിടെ കറന്റ് എന്നത് ic 0 5 v0 അതാണ് നാം കാണിച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടത് ഈ i പിന്നെ v 0 എന്നത് കണ്ടെത്തുക എന്നതാണ് ഇത് ഒരു ഡിപെൻഡന്റ് കറന്റ് സോഴ്സ് ആണ് നമുക്ക് ഈ സർക്യൂട് സോൾവ് ചെയ്യേണ്ടതാണ് നാം അത് എങ്ങനെ ചെയ്യും ഇവിടെ ഒരു 12 Ω റെസിസ്റ്റർ ഉണ്ട് അതിൽ 2Ω ഇവിടെയും 10Ω ഇവിടെയും ആണ് പിന്നെ ഇവിടെ ഒരു 6 Ω പിന്നെ ഇവിടെ വോൾടേജ് സോഴ്സ് എന്നത് 100 വോൾട് ആണ് പിന്നെ ഒരു ഡിപെൻഡന്റ് കറന്റ് സോഴ്സ് അത് 0 5 v 0 ആണ് പിന്നെ ഈ വോൾടേജ് എന്നത് ഈ 2 Ω റെസിസ്റ്ററിനു കുറുകെ ആണ് ഇവിടെ 2 ലൂപ്പ് ഉണ്ട് ഇത് ലൂപ്പ് 1 നാം ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഉപയോഗിക്കുന്നു പിന്നീട് ഇത് ലൂപ്പ് 2 ഈ കേസിൽ നാം എന്താണ് ചെയ്യേണ്ടത് ഒരു നിമിഷം നോക്കുക നമുക്ക് ഇത് സോൾവ് ചെയ്യണം ആദ്യം ഈ നോഡ് 1 ൽ KCL അപ്ലൈ ചെയ്യണം നാം ഇവിടെ KCL അപ്ലൈ ചെയ്യുന്നു എന്ന് കരുതുക അതായതു നോഡ് 1 ൽ ഇവിടെ ഇൻകമിങ് കറന്റ് എന്നത് i ആണ് പിന്നെ ഇവിടെ 2 ഔട്ട്ഗോയിംഗ് കറന്റ് ആണുള്ളത് അത് i 1 പിന്നെ i 2 അതിനാൽ i i1 i2 അത് നോഡ് 1 ൽ KCL അപ്ലൈ ചെയ്തതിനു ശേഷം ആയിരിക്കും ഇതാണ് ഇക്വേഷൻ 1 അതുപോലെ തന്നെ ഈ സർക്യൂട്ടിൽ നോഡ് 2 നോക്കുക ഇത് ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ആണ് ഇതാണ് കറന്റ് i അത് നാം ic എന്നാണ് വിളിക്കുക ഇതൊരു ഡിപെൻഡന്റ് സോഴ്സ് ആണ് ഇതിലെ കറന്റ് എന്നത് 0 5 v 0 ആണ് ഇവിടെ ഈ നോഡ് 2 ൽ നാം KCL അപ്ലൈ ചെയ്യുന്നു അടിസ്ഥാനപരമായി ഈ 2 കറന്റ് എന്നത് ഇൻകമിങ് കറന്റ് ആണ് അതായതു i1 ഈ ic ആണ് ഔട്ട്ഗോയിംഗ് കറന്റ് i3 അതിന്റെ അർഥം ഈ i 1 പിന്നെ ഈ ic എന്നത് 0 5 v 0 i 3 ആണ് അതിനാൽ ഈ നോട് 2 ൽ KCL അപ്ലൈ ചെയ്താൽ നാം ഇതേ കാര്യം തന്നെ എഴുതുന്നു i3 i1 0 5 v0 ഇതാണ് ഇക്വേഷൻ 2 ഇനി നാം ലൂപ്പ് 1 ൽ KVL അപ്ലൈ ചെയ്യുന്നു നാം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആണ് നീങ്ങുന്നത് ആദ്യം നാം കാണുക സൈൻ ആണ് അത് 100 വോൾട് ആയ വോൾടേജ് സോഴ്സ് ആണ് അതിനാൽ അത് 100 ആയിരിക്കും പിന്നീട് അത് ആ 12Ω റെസിസ്റ്റൻസ് ആണ് ഈ കറന്റ് ഈ 12 Ω റെസിസ്റ്ററിലൂടെ ആണ് പോകുന്നത് അതിനാൽ അത് 12 i ആണ് പിന്നെ ഈ ബ്രാഞ്ചിൽ ഈ i 2 എന്ന കറന്റ് ആണ് പ്രവേശിക്കുന്നത് നമുക്ക് ഇത് ഇങ്ങനെ എഴുതാം ഒന്നുകിൽ നമുക്ക് R2 i എഴുതാം അല്ലെങ്കിൽ v 0 ഈ കേസിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് വച്ചാൽ ഈ ലൂപ്പ് 1 അത് 100 12 i v0 0 നാം ഈ സർക്യൂട്ടിൽ നോക്കിയാൽ മനസ്സിലാകും ഈ v 0 എന്നത് ഓംസ് ലോ ohm 's law വച്ച് അത് 2 i2 ആണ് കറന്റ് പോസിറ്റീവ് ടെർമിനലിൽ ആണ് പ്രവേശിക്കുക അതിനാൽ v0 2 i2 ആണ് ഇങ്ങനെ ആണ് നാം ലൂപ്പ് 1 ൽ KVL അപ്ലൈ ചെയ്തത് ഇനി ഓംസ് ലോ വച്ച് നമുക്ക് പറയാം v0 2 i2 ഇനി ലൂപ്പ് 2 ൽ KVL അപ്ലൈ ചെയ്യുക നാം ക്ലോക്ക് വൈസ് ആയാണ് നീങ്ങുക ആദ്യം ഇവിടെ സൈൻ ആണ് ആദ്യം ഈ v 0 ഈ v 0 എന്നത് മാർക്ക് ചെയ്തിരിക്കുന്നു അതായതു ഈ 2Ω റെസിസ്റ്ററിനു കുറുകെ ഉള്ള വോൾടേജ് എന്നത് v 0 ആണ് ഇത് ആദ്യം സൈൻ ആയതിനാൽ അത് v 0 ആണ് പിന്നീട് അത് എന്നത് 10 i 1 എന്നതിൽ നിന്നും ആണ് വീണ്ടും അത് 6 i പിന്നെ ഈ ബ്രാഞ്ച് ലൂടെ ഉള്ള കറന്റ് i 3 എന്നത് 0 ആണ് നാം ഇതിലൂടെ വന്നാൽ ഇത് v0 10 i1 6 i3 0 ഇതാണ് ഇക്വേഷൻ 5 ആണ് ഇനി ഇക്വേഷൻ 4 ൽ നിന്നും നമുക്ക് v0 2 i2 എന്നത് ഇക്വേഷൻ 3 ലും 5 ലും കൊടുക്കുക ഈ ഇക്വേഷൻ 3 ൽ v 0 യുടെ വാല്യൂ അതായതു v0 2 i2 എന്നത് കൊടുക്കുക അത് തന്നെ ഇക്വേഷൻ 5 ലും കൊടുക്കുക v0 2 i2 അങ്ങനെ ചെയ്താൽ നമുക്ക് 12 i 2 i2 100 എന്ന് കിട്ടും ഇതാണ് ഇക്വേഷൻ 6 ആണ് മറ്റൊന്ന് നമുക്ക് 2 i2 10 i1 6 i3 0 എന്ന് കിട്ടും അത് ഇക്വേഷൻ 7 അതിൽ നാം v0 2 i2 എന്ന് കൊടുക്കുക v0 2 i2 അത് ഇക്വേഷൻ 2 ൽ കൊടുക്കുക ഇതാണ് ഇക്വേഷൻ 2 അതു v0 2 i2 എന്ന് കൊടുക്കുക അപ്പോൾ നമുക്ക് i3 i1 0 5 v0 എന്ന് കിട്ടും അതിനാൽ അവസാനം ലഭിക്കും i3 i1 i 2 എന്ന് ഇതാണ് ഇക്വേഷൻ 8 ഇനി 1 ൽ നിന്നും 8 ൽ നിന്നും നമുക്ക് i3 i എന്ന് കിട്ടും എന്തെന്നാൽ i1 i2 യഥാർത്ഥത്തിൽ i ആണ് ഇത് നാം മുമ്പ് പറഞ്ഞ കാര്യം ആണ് ഇക്വേഷൻ 1 എന്നത് ചെക്ക് ചെയ്യുക ഇത് നാം ഇക്വേഷൻ 9 ആയി മാർക്ക് ചെയ്യുക അതിനാൽ ഇക്വേഷൻ 7 1 പിന്നെ 9 ൽ നിന്നും നമുക്ക് കിട്ടും ഇതിൽ നിന്നെല്ലാം നമുക്ക് വാല്യൂകൾ കൊടുത്തു കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടണം അത് ലളിതമായ കാര്യം ആണ് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം കിട്ടും അത് 2 i2 10 I i2 6 i 0 അതിനെ ലഘൂകരിക്കുക അപ്പോൾ നമുക്ക് 2 i2 യഥാർത്ഥത്തിൽ 8 3 i 16 i 12 i2 അപ്പോൾ 2 i2 8 3 i ഇനി യഥാർത്ഥത്തിൽ അത് v0 2 i2 അതിനാൽ ആണ് ഞാൻ അവിടെ എഴുതാത്തത് i2 4 ബൈ 3 ഇനി 2 i2 i3 അത് ഇക്വേഷൻ 10 ഇനി ഈ ഇക്വേഷൻ 10 6 നമുക്ക് സോൾവ് ചെയ്യണം ഇനി 2 i2 8 ബൈ 3 ഇനി ഈ രണ്ടു ഇക്വേഷൻ സോൾവ് ചെയ്യുക അപ്പോൾ നമുക്ക് i 75 ബൈ 11 ആംപിയർ ആണ് അപ്പോൾ i 2 എന്നത് നമുക്ക് 10 സോറി 100 11 ആംപിയർ എന്ന് കിട്ടും നമുക്കറിയാം v 0 എന്നത് 2 i 2 അതിനാൽ 2 i2 അതിൽ i 2 എന്നത് 100 ബൈ 11 ആണ് അതിനാൽ 2 100 ബൈ 11 അത് ഏകദേശം 18 18 വോൾട് ആണ് അത് എന്നത് 75 ബൈ 11 അതിൽ v0 എന്നത് ഏകദേശം 18 18 വോൾട് ആണ് ഇതാണ് നമ്മുടെ ഉത്തരം ഇനി മറ്റൊരു ഉദാഹരണം നോക്കുക അതിനാൽ നാം ഏല്ലാ തരം ന്യൂമെറിക്കൽ ഉം പരിചയപ്പെടണം ഈ രണ്ടാമത്തേത് ഈ ഫിഗറിൽ തന്നിരിക്കുന്ന സർക്യൂട്ടിലെ കറന്റ് വോൾടേജ് എന്നിവ കണ്ടെത്തുക ഇത് R2 ഇതിൽ ഡിപെൻഡന്റ് സോഴ്സ് നെ കുറിച്ചുള്ള ചോദ്യം ഉദിക്കുന്നില്ല ഇവിടെ 2 ഇൻഡിപെൻഡന്റ് വോൾടേജ് സോഴ്സ് ആണ് ഉള്ളത് ഒരെണ്ണം 5 വോൾട് മറ്റേതു 3 വോൾട് ഇവിടെ 2 ലൂപ്പുകൾ ആണുള്ളത് ഇത് ക്ലോക്ക് വൈസ് ദിശയിൽ ആണ് എടുത്തിട്ടുള്ളത് ഈ 2Ω റെസിസ്റ്റൻസ് നു കുറുകെ ആണ് വോൾടേജ് v 1 പിന്നെ ഈ 4 Ω നു കുറുകെ v 3 പിന്നെ ഈ 8 Ω നു കുറുകെ v 2 ഈ സർക്യൂട്ടിൽ നമുക്ക് കറന്റ് വോൾടേജ് എന്നിവ കണ്ടെത്തുക അതിന്റെ അർഥം നമുക്ക് i 1 കണ്ടു പിടിക്കണം ഈ ബ്രാഞ്ചിലൂടെ ഉള്ള കറന്റ് എന്നത് i 1 ആണ് പിന്നെ ഇതാണ് i 2 പിന്നെ ഇവിടെ i 3 ഇനി നമുക്ക് ഇത് പോലെ v 1 v 2 v 3 എന്നിവയും കണ്ടെത്തേണ്ടതുണ്ട് നമുക്ക് വേഗം മനസിലാക്കാം v 1 2 i1 v 3 4 i3 പിന്നെ v 2 8 i2 എന്ന് കിട്ടും ഇവിടെ എല്ലായിടത്തും കറന്റ് പോസിറ്റീവ് പൊളാരിറ്റിയിലേക്കു പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് അതിനാൽ സൈൻ ആണ് ഇത് ഓംസ് ലോ യിൽ നിന്നാണ് അത് നാം മുമ്പ് പറഞ്ഞതാണ് ഇവിടെ 2 വോൾടേജ് സോഴ്സ് ആണ് ഉള്ളത് ഒന്ന് 5 വോൾട് അടുത്ത് 3 വോൾട് ഇത് എന്നിവ മാർക്ക് ചെയ്തിരിക്കുന്നു ഇനി നാം എന്താണ് ചെയ്യുക ഇനി KCL പിന്നെ KVL എന്നിവ അപ്ലൈ ചെയ്യുക ആദ്യം ഈ നോഡ് a യിൽ KCL അപ്ലൈ ചെയ്യുക ഇതാണ് നോഡ് a ഞാൻ ഇത് വീണ്ടും കളർ ഉപയോഗിച്ച് മാർക്ക് ചെയ്യുന്നു അതിനാൽ KCL അപ്ലൈ ചെയ്യുക ഇവിടെ ഉള്ള ഇൻകമിങ് കറന്റ് എന്നത് i 1 ആണ് പിന്നെ ഇവിടെ ഉള്ള ഔട്ട്ഗോയിംഗ് കറന്റ് എന്നത് i 2 പിന്നെ i 3 ഇവിടെ KCL അപ്ലൈ ചെയ്താൽ മനസ്സിലാകും i1 i2 i3 ഇതാണ് ഇക്വേഷൻ 1 ഇനി ഈ ലൂപ്പ് 1 ൽ KVL അപ്ലൈ ചെയ്യുക അപ്പോൾ ഇവിടെ ആദ്യം വരുന്ന ടെർമിനൽ എന്നത് ആണ് അത് ഈ 5 വോൾട് dc യുടെ ടെർമിനൽ ആണ് അതിനാൽ ഇത് 5 ആണ് അടുത്ത് ഇങ്ങനെ പോയാൽ നാം കാണുക വീണ്ടും ടെർമിനൽ ആണ് അതിനാൽ ഇത് 5 വോൾട് പിന്നെ ഇവിടെ v 1 വീണ്ടും ഞാൻ ക്ലോക്ക് വൈസ് നീങ്ങിയാൽ ആദ്യം ആണ് വരിക അതിനാൽ v 2 അപ്പോൾ 5 v 1 v 2 0 അതിന്റെ അർഥം KVL ലൂപ്പ് 1 അപ്ലൈ ചെയ്താൽ അത് 5 v 1 v 2 0 എന്ന് കിട്ടും ഇനി ഈ ലൂപ്പ് 2 ഇനി ഈ ലൂപ്പ് 2 ലേക്ക് വരിക ഇനി ഈ ലൂപ്പ് 2 ൽ നാം ക്ലോക്ക് വൈസ് നീങ്ങുന്നു ആദ്യം ഞാൻ ഈ v 2 പിന്നെ v 3 പിന്നെ 3 0 എന്തെന്നാൽ ആദ്യം ടെർമിനൽ ആണ് കാണുക പിന്നീട് ആണ് ആദ്യം പിന്നെ പൊളാരിറ്റി അതായതു v 2 v 3 3 0 ഇതാണ് ലൂപ്പ് 2 അതാണ് v 2 v 3 3 0 ഇതാണ് ഇക്വേഷൻ 3 ഇനി ഓംസ് ലോ അനുസരിച്ചു പറയാം v 1 2 i1 ആയിരിക്കും എന്തെന്നാൽ നാം കണ്ടു എല്ലായിടത്തും പോസിറ്റീവ് ടെര്മിനലിലേക്കു ആണ് പ്രവേശിക്കുക v 1 2 i1 v 2 8 i2 പിന്നെ v 3 4 i3 ഇത് ഞാൻ ഒരുമിച്ചു എഴുതുന്നു v 1 2 i1 v 2 8 i2 v 3 4 i3 ഈ കോമ്പിനേഷൻ ആണ് ഇക്വേഷൻ 4 ഇനി ഈ ഇക്വേഷൻ 2 ൽ v 1 2 i1 v 2 8 i2 എന്ന് കൊടുക്കുക അങ്ങനെ ചെയ്താൽ നമുക്ക് കിട്ടുന്നതു 2 i1 8 i2 5 എന്നാണ് ഇതാണ് ഇക്വേഷൻ 5 ഞാൻ ഇത് കുറച്ചു ലഖു ആകുന്നു ഈ എല്ലാ സ്റ്റെപ്പും എഴുതിയാൽ സമയം ഒരുപാട് നഷ്ടമാകും അതുപോലെ v 2 8 i2 പിന്നെ v 3 4 i3 എന്നും ഇക്വേഷൻ 3 യിൽ കൊടുക്കുക അങ്ങനെ കൊടുത്താൽ നമുക്ക് 8 i2 4 i3 3 0 എന്ന് കിട്ടും അത് മറ്റൊരു രീതിക്കു പറഞ്ഞാൽ 4 i3 8 i2 3 ഇതാണ് ഇക്വേഷൻ 6 ഇനി ഈ ഇക്വേഷൻ 5 ൽ നിന്നും 1 ൽ നിന്നും നമുക്ക് കിട്ടും ഇനി ഈ ഇക്വേഷൻ 5 നോക്കുക അത് i 1 പിന്നെ ഇക്വേഷൻ 1 എന്നത് i1 i2 i3 ഇത് നാം ഈ ഇക്വേഷനിൽ കൊടുക്കുക ഇനി ഈ ഇക്വേഷൻ 5 ൽ നാം i1 i2 i3 എന്ന് കൊടുക്കുക ഇനി 2 അത് 2 i1 8 i2 5 എന്നാൽ ഇവിടെ i1 i2 i3 അതിനാൽ 2 i2 i3 8 i2 5 ഇത് ലഘൂകരിച്ചു കഴിഞ്ഞാൽ 10 i 2 എന്തെന്നാൽ 2 i2 8 i2 10 i2 2 i3 5 ഇതാണ് ഇക്വേഷൻ 7 അത് പോലെ ഇക്വേഷൻ 6 ൽ നിന്നും 7 ൽ നിന്നും നമുക്ക് 10 കിട്ടും ചെറിയ രീതിയിൽ രൂപപ്പെടുത്തിയാൽ മതി 10 20 i2 8 i2 3 ഇനി ഇക്വേഷനിൽ കൊടുത്താൽ അത് 4 i3 8 i2 3 ഇത് മാത്തമറ്റിക്കൽ സബ്സ്റ്റിട്യൂഷൻ മാത്രമാണ് അതിനാൽ ഇക്വേഷൻ 6 7 എന്നിവ സോൾവ് ചെയ്താൽ 10 20 i2 8 i2 3 ആയിരിക്കും അപ്പോൾ i2 1 4 ആംപിയർ ആണ് അത് ഇക്വേഷൻ 7 ൽ കൊടുത്താൽ നമുക്ക് 10 1 4 2 i3 5 എന്ന് ലഭിക്കും ഇത് സോൾവ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കും i3 1 25 ആംപിയർ ഇനി നമുക്ക് ഇക്വേഷൻ 1 ൽ നിന്നും i1 i2 i3 അത് 1 4 1 25 അത് 1 5 ആംപിയർ ആണ് അപ്പോൾ v 1 2 i1 അത് 2 1 5 3 വോൾട് v 2 എന്നത് നാം നേരത്തെ കണ്ടതാണ് 8 i2 അത് 8 1 4 അപ്പോൾ 2 വോൾട് പിന്നെ v 3 4 i3 അത് കൊണ്ട് 4 1 25 അപ്പോൾ അത് 5 വോൾട് അപ്പോൾ v 1 v 2 v 3 എന്നിവ നമുക്ക് കിട്ടി അതുപോലെ i1 i2 പിന്നെ i3 യും കിട്ടി ഇനി ഇത് എങ്ങനെ സോൾവ് ചെയ്യും എന്ന് നോക്കുക ഇതെല്ലാം ഇത് സോൾവ് ചെയ്യാനുള്ള പലതരം ടെക്നിക് ആണ് അത് നാം പിന്നീട് പഠിക്കുന്നതാണ് ഡിപെൻഡന്റ് സോഴ്സ് ഇൻഡിപെൻഡന്റ് സോഴ്സ് ഇതെല്ലാം നമുക്ക് സുപരിചിതമായ കാര്യങ്ങൾ ആണ് ഇനി റെസിസ്റ്റർ സീരീസ് അതോടൊപ്പം വോൾടേജ് ഡിവിഷൻ ആദ്യം നാംപരിഗണിക്കുക റെസിസ്റ്റർ സീരീസ് ആണ് അതിനു ശേഷം നാം പാരലൽ നോക്കുന്നതാണ് അതിനാൽ സിരീസ് റെസിസ്റ്റർ പിന്നെ വോൾടേജ് ഡിവിഷൻ ഇതിനെ നാം അടിസ്ഥാന പരമായി സീരീസ് കണക്ഷൻ എന്നാണ് പറയുക ഇത്തരത്തിൽ ഉള്ള സർക്യൂട്ടിനെ നാം വോൾടേജ് ഡിവൈഡർ എന്ന് വിളിക്കും അത് നാം പിന്നീട് നോക്കും എന്നാൽ സർക്യൂട് അനാലിസിസ് ൽ നാം മിക്കവാറും റെസിസ്റ്ററുകൾ സീരീസ് അല്ലെങ്കിൽ പാരലൽ ആയി യോജിപ്പിക്കുക എന്നത് ചെയ്യുന്ന കാര്യം ആണ് ഇനി നമുക്ക് ഈ സർക്യൂട് ലഘൂകരിക്കേണ്ടതുണ്ട് അതിനാലാണ് നാം ഈ ലളിതമായ അനാലിസിസ് നോക്കുന്നത് അതിനാൽ ഇവിടെ നാം ചർച്ച ചെയ്യുക റെസിസ്റ്ററുകളുടെ സീരീസ് കണക്ഷൻ ആണ് ഇനി നാം ഈ ലളിതമായ സർക്യൂട് പരിഗണിക്കുക ഇവിടെ രണ്ടു റെസിസ്റ്ററുകൾ ആണുള്ളത് R 1 പിന്നെ R 2 അവ സീരീസ് ആയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അതിനു കുറുകെ ഉള്ള വോൾടേജ് എന്നത് യഥാക്രമം v 1 v 2 എന്നിവയാണ് അതിന്റെ പൊളാരിറ്റി മാർക്ക് ചെയ്തിരിക്കുന്നു അതിലൂടെ ഉള്ള കറന്റ് എന്നത് i ആണ് ഇതാണ് a b എന്നീ ടെർമിനലുകൾ ഈ ടെര്മിനലുകൾക്കു കുറുകെ ഒരു വോൾടേജ് സോഴ്സ് കണക്ട് ചെയ്തിരിക്കുന്നു അതിനു കുറുകെ തന്നെ ആണ് സീരീസ് ആയി റെസിസ്റ്ററുകൾ കണക്ട് ചെയ്തിരിക്കുന്നത് അവിടെ പൊളാരിറ്റി മാർക്ക് ചെയ്തിരിക്കുന്നു ഇത് ഒറ്റ ലൂപ്പ് ഉള്ള സർക്യൂട് ആണ് അതിൽ 2 റെസിസ്റ്ററുകൾ സീരീസ് ആയി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇവിടെ അതെ KVL തന്നെ നാം അപ്ലൈ ചെയ്യുന്നു എന്നാൽ ആദ്യം നാം ഓംസ് ലോ ആണ് അപ്ലൈ ചെയ്യുക അതിൽ നിന്നും അറിയാം v 1 i R1 പിന്നെ v 2 i R2 അതിന്റെ അർഥം v 1 i R1 പിന്നെ v 2 i R2 ഇനി KVL അപ്ലൈ ചെയ്യുക ഇതിലെ ക്ലോക്ക് വൈസ് ആയാണ് നീങ്ങേണ്ടത് ഈ കേസിൽ ആദ്യം ടെർമിനൽ ആണ് അതിനാൽ ഇത് v ആണ് ഇനിയും ക്ലോക്ക് വൈസ് നീങ്ങുക അപ്പോൾ ടെർമിനൽ ആണ് അത് R 1 പിന്നെ R 2 നും ടെർമിനൽ ആണ് അതിനാൽ v v 1 v 2 0 ആണ് ഞാൻ ഇത് ക്ലീൻ ആക്കുന്നു അതിനാൽ ഈ കേസിൽ ഇത് v v 1 v 2 0 അല്ലെങ്കിൽ v v 1 v 2 എന്നാൽ ഇവിടെ v 1 എന്നത് iR1 ആണ് പിന്നെ ഇവിടെ അത് iR2 ആണ് ഇതാണ് ഇക്വേഷൻ 20 അത് ഇവിടെ കൊടുത്താൽ നമുക്ക് v എന്നത് iR1 iR2 എന്ന് കിട്ടും അതിനാൽ അവസാനം അത് v i R1 R2 എന്നാകുന്നു ഇതാണ് ഇക്വേഷൻ 22 ഇത് ചാപ്റ്റർ 2 ആയതു കൊണ്ടാണ് അത് 2 എന്നാൽ ഞാൻ അത് 21 ആക്കുന്നു എന്തെന്നാൽ 20 ആണ് കഴിഞ്ഞത് അത് മനസ്സിലാക്കാമല്ലോ അത് കൊണ്ട് i v R1 R2 അതിന്റെ അർഥം ഇക്വേഷൻ 2 22 ഇത് നമുക്ക് v i R എന്നു എഴുതാം എന്തെന്നാൽ ഇതാണ് തുല്യ റെസിസ്റ്റൻസ് അപ്പോൾ ഈ R R1 R2 അത് അർത്ഥമാക്കുന്നത് ഈ റെസിസ്റ്ററുകളെ ഈ R ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കാം അതായതു R R1 R2 ഇതാണ് ഇക്വേഷൻ 25 ഇനി ഈ ഫിഗർ 2 22 ലെ ഇക്വിവാലെന്റ് സർക്യൂട് എന്നത് ഇങ്ങനെ ആയിരിക്കും ഇതാണ് ഇക്വിവാലെന്റ് സർക്യൂട് അതിന്റെ അർഥം ഈ വോൾടേജ് സോഴ്സ് എന്നത് അങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ ഈ R eq എന്നത് വേറൊന്നും അല്ല അത് R1 R2 ആണ് അതിനു കുറുകെ ഉള്ള വോൾടേജ് എന്നത് v 1 v 2 v എന്തെന്നാൽ ഇക്വേഷൻ 21 ൽ നിന്നും ഇത് v 1 v 2 ആണ് പിന്നെ ഈ v 1 v 2 എന്നത് v ആണ് അതാണ് സോഴ്സ് വോൾടേജ് അതിനാലാണ് ഇവിടെയും നാം v v 1 v 2 എന്ന് എഴുതിയത് അതാണ് ആകെ വോൾടേജ് ഇത് v അതിലൂടെ ഉള്ള കറന്റ് എന്നത് i ഇതാണ് ഇക്വിവാലെന്റ് സർക്യൂട് ഇനി ഓരോ റെസിസ്റ്ററിനു൦ കുറുകെ ഉള്ള വോൾടേജ് കണ്ടു പിടിക്കുക അത് ഇക്വേഷൻ 23 യിലും 20 യിലും കൊടുക്കുക നമുക്ക് കിട്ടും അപ്പോൾ v 1 എന്നത് R1 ഡിവൈഡഡ് ബൈ R1 R2 എന്ന് കിട്ടും ഇത് വളരെ ലളിതമാണ് നമുക്കറിയാം v 1 R1 i ആണ് ഇതിൽ നിന്നും നമുക്ക് കിട്ടുക ഒരു നിമിഷം ഞാൻ ഇത് ക്ലീൻ ആക്കുന്നു ഇതിൽ നിന്നും മനസിലാക്കാം i v Req ആണ് അതിന്റെ അർഥം R eq R1 R2 ആണ് ഇനി ഇങ്ങോട്ടു പോയാൽ v 1 r i R ആണ് എന്നാൽ ആദ്യ സർക്യൂട്ടിൽ നാം മനസ്സിലാക്കി അത് v ബൈ R1 R2 R 1 അതാണ് v 1 ഞാൻ ഇത് ക്ലീൻ ആക്കുന്നു ഇനി ഈ സർക്യൂട്ടിലെക്കു തിരിച്ചു വന്നാൽ അത് v 1 i R1 പിന്നെ i v R1 R2 അതിനാൽ അത് R1 v R1 R2 അതുപോലെ v 2 i R2 ആണ് പിന്നെ ഇപ്പോൾ നമ്മൾ കണ്ടു i v R1 R2 അതിനാൽ v 2 R2 v R1 R2 ഇത് രണ്ടും ആണ് ഇക്വേഷൻ 26 ഇത് നമുക്ക് എഴുതാം R1 R2 എന്നത് യഥാർത്ഥത്തിൽ R eq ആണ് എന്തെന്നാൽ ഇത് R eq ആണ് അതിനാൽ ഈ ഇക്വേഷൻ v 1 എന്നത് നമുക്ക് R1 R eq v എന്നും v 2 R2 R eq v എന്നും എഴുതാനാകും അതിനാൽ ഈ 2 ഇക്വേഷൻ ഒരു പൂർണ ഇക്വേഷൻ ആയി എഴുതുന്നു അതാണ് ഇക്വേഷൻ 27 ഇനി N റെസിസ്റ്ററുകൾ സീരീസ് ആക്കിയാൽ നമുക്ക് എഴുതാം R eq എന്നത് R1 R2 Rn എന്നായിരിക്കും അതിനാൽ സിഗ്മ 1 റ്റു N R1 N Rk അപ്പോൾ നമുക്ക് N എണ്ണം റെസിസ്റ്ററുകൾ സീരീസ് ആയി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഈ 2 26 ലെ ഈ സർക്യൂട്ടിനെ ആണ് വോൾടേജ് ഡിവൈഡർ എന്ന് വിളിക്കുക എന്തെന്നാൽ ഈ R 1 നു കുറുകെ വോൾടേജ് v 1 ആണ് പിന്നെ R 2 നു കുറുകെ v 2 അപ്പോൾ ഈ R n നു കുറുകെ ആണേൽ v n അപ്പോൾ നമുക്ക് ലഭിക്കും vഎന്നത് v 1 v 2 അതാണ് നമുക്ക് കിട്ടുക അതിനാലാണ് ഇതിനെ വോൾടേജ് ഡിവൈഡർ എന്ന് പറയുക പൊതുവായി പറഞ്ഞാൽ ഒരു ഡിവൈഡറിന് N റെസിസ്റ്ററുകൾ ഉണ്ടെങ്കിൽ ഇതിന്റെ വോൾടേജ് ഡ്രോപ്പ് എന്നത് ആ n th റെസിസ്റ്ററിനു ആയിരിക്കും ഒരിക്കൽ കൂടി നമുക്ക് v n ആണ് ഉള്ളത് എങ്കിൽ നാം ഊഹിക്കുന്നു അത് R n എന്നത് ആണ് n th റെസിസ്റ്റർ പിന്നെ നമ്മുടെ കയ്യിൽ n എണ്ണം റെസിസ്റ്ററുകൾ ആണ് ഉള്ളത് അപ്പോൾ ഈ vn എന്നത് Rn R1 R2 Rn v ആയിരിക്കും എന്തെന്നാൽ ഇത് കറന്റ് i ആണ് ഇത് n ഒരു മിനിറ്റ് ഞാൻ ഇത് ശരിയാക്കുകയാണ് ഇനി ഒരു സർക്യൂട് ഇങ്ങനെ ഉണ്ട് എന്ന് കരുതുക പിന്നെ ഇവിടെ ഒരു വോൾടേജ് സോഴ്സ് ഇത് v പിന്നെ ഇത് ഒരു റെസിസ്റ്റർ R 1 പിന്നെ R 2 അങ്ങനെ R n ഇത് R 1 പിന്നെ R 2 അങ്ങനെ ഇത് Rn പിന്നെ ഈ സർക്യൂട് ക്ലോസ് ആക്കി പിന്നെ ഇതിലൂടെ ഒഴുകുന്ന കറന്റ് i ആണ് എന്നും അനുമാനിക്കുക അപ്പോൾ R eq അത് ഇനി i എന്നത് v R 1 പിന്നെ R 2 അങ്ങനെ R n വരെ ഇതാണ് n th എലമെന്റ് അതിനു കുറുകെ ഉള്ള വോൾടേജ് എന്നത് ഇതാണ് ഈ nth റെസിസ്റ്റർ എന്നത് R n ആണ് ഇവിടെ യഥാർത്ഥത്തിൽ നമുക്ക് N റെസിസ്റ്ററുകൾ ആണുള്ളത് ഞാൻ ഇവിടെ N ക്യാപിറ്റൽ ആയാണ് എടുത്തിരിക്കുന്നത് അതായിരിക്കും നല്ലതു അപ്പോൾ ഈ R n എന്നത് ക്യാപിറ്റൽ ആക്കുക അപ്പോൾ ഇത് ടെർമിനൽ പിന്നെ ഇത് ടെർമിനൽ അപ്പോൾ ഇതിനു കുറുകെ ഉള്ള വോൾടേജ് എന്നത് vn ആണ് എന്നത് മനസ്സിലാക്കാനാകുന്ന കാര്യമാണല്ലോ അപ്പോൾ vn i Rn പിന്നെ ഇവിടെ ഈ i ഞാൻ എഴുതുന്നു അത് v R1 R2 അങ്ങനെ Rn വരെ അപ്പോൾ അത് സോറി v R n ബൈ ഇത് v R 1 അതായതു ക്യാപിറ്റൽ R 1 പിന്നെ ഇവിടെ R n ഞാൻ ഇവിടെ R n എന്ന് എഴുതുന്നു അതിനാൽ ഞാൻ v R1 R2 അങ്ങനെ Rn വരെ എന്ന് ആക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് മനസ്സിലാക്കാനാകുന്ന കാര്യമാണ് ഞാൻ ഇത് ക്ലീൻ ആക്കുന്നു ഇത് ഈ സീരീസ് ആയ റെസിസ്റ്ററിനു വേണ്ടി ആണ് ഇനി നാം പാരലൽ റെസിസ്റ്റർ ലേക്ക് വരുന്നു പിന്നെ കറന്റ് ഡിവിഷൻ അപ്പോൾ സീരീസ് എന്നതിന് വോൾടേജ് ഡിവിഷൻ ആയിരുന്നു എന്നാൽ പാരലൽ റെസിസ്റ്ററിനു ഇത് കറന്റ് ഡിവിഷൻ ആയിരിക്കും ഇനി ഈ ഫിഗറിലെ സർക്യൂട് പരിഗണിക്കുക ഇതിൽ 2 റെസിസ്റ്ററുകൾ പാരലൽ ആയി കണക്ട് ചെയ്തിരിക്കുന്നു അതിനാൽ അവയ്ക്കു കുറുകെ ഉള്ള വോൾടേജ് എന്നത് സെയിം ആയിരിക്കും ഇത് ഒരു ലളിതമായ സർക്യൂട് ആണ് ഇനി ഇത് രണ്ടും യോജിപ്പിക്കേണ്ടതാണ് എന്തെന്നാൽ ഇത് ഒരു സിംഗിൾ നോഡ് ആണ് എന്തെന്നാൽ ഈ 2 പോയിന്റുകൾക്കിടയിൽ മറ്റൊന്നും ഇല്ല അതുപോലെ ഈ രണ്ടു പോയിന്റുകൾക്കിടയിലും മറ്റൊന്നും ഇല്ല അത് വീണ്ടും ലഘൂകരിച്ചു ഇവിടെ ഈ വയറുകൾ അല്ലാതെ മറ്റൊന്നും ഇല്ല അപ്പോൾ ഈ സർക്യൂട് എന്നത് ഇതുപോലെ ആകുന്നു ഇവിടെ ഈ ഒരു ഒറ്റ നോഡ് മാത്രമേ കാണൂ അപ്പോൾ ഈ R 1 ഉം പിന്നെ ഈ R 2 ഉം തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ മറ്റൊന്നും കാണില്ല പിന്നെ ഈ വോൾടേജ് സോഴ്സ് ഈ സർക്യൂട് ഇങ്ങനെയാകും കാണുക ഇത് നോഡ് 1 പിന്നെ ഇത് നോഡ് 2 ഇതിലൂടെ ഒഴുകുന്ന കറന്റ് എന്നത് i 1 ആണ് പിന്നെ ഇതിലൂടെ ഒഴുകുന്നത് i 2 അപ്പോൾ ഈ സർക്യൂട്ട് എന്നതു ഇതിനു തുല്യമാണ് എന്തെന്നാൽ ഇത് ഒരു കോമൺ പോയിന്റ് ആണ് അതിന്റെ അർഥം ഇത് i1 i2 ഇവിടെ നാം KCL എഴുതിയാൽ ഇത് നോഡ് 1 ആകുന്നു എന്തെന്നാൽ ഇത് വയർ ആണ് അപ്പോൾ ഈ നോഡിൽ നാം എഴുതിയാൽ ഇവിടെ ഇൻകമിങ് കറന്റ് എന്നത് i ആണ് പിന്നെ ഔട്ട്ഗോയിംഗ് കറന്റ് i 1 i 2 അപ്പോൾ i i1 i2 ആണ് ഇത് നമുക്കു ലളിതമായി മനസിലാക്കാം ഞാൻ ഇത് ക്ലീൻ ആക്കാം ഇനി ഓംസ് ലോ അപ്പോൾ നമുക്ക് അതെ കാര്യം തന്നെ കിട്ടും ഇത് ഒരു പാരലൽ സർക്യൂട് ആണ് ഇതിനു കുറുകെ ഉള്ള വോൾടേജ് എന്നത് v ആണ് എന്തെന്നാൽ ഇതിനിടയിൽ ഒരേ വോൾടേജ് ആണ് ഉണ്ടാകുക ഇനി ഞാൻ ഇക്വിവാലെന്റ് സർക്യൂട് equivalent circuit അപ്പോൾ ഈ v എന്നത് i 1 R 1 ആണ് അതുപോലെ i 2 R2 ഉം ആണ് എന്തെന്നാൽ ഇവിടെ മറ്റു റെസിസ്റ്റൻസ് ഇല്ല പിന്നെ മറ്റൊരു എലെമെന്റുകളും ഇല്ല ഇവിടെയും ഇല്ല അപ്പോൾ ഈ 2 നോഡുകളിലും v എന്ന വോൾടേജ് തന്നെ സ്ഥാപിക്കപ്പെടുന്നു ഇത് പാരലൽ സർക്യൂട് ആണ് അപ്പോൾ ഈ v എന്നത് i 1 R 1 ആണ് അതുപോലെ i 2 R2 ഉം ആണ് അത് മനസ്സിലാക്കാൻ ആകും ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ ഒരു കൺഫ്യൂഷൻ വേണ്ട ഞാൻ ഇതേ കാര്യം തന്നെ വീണ്ടും വരക്കുന്നു ഇത് മറ്റൊരു റെസിസ്റ്റർ ആണ് എന്ന് കരുതുക ഇത് നോഡ് 1 ഇപ്പോൾ നാം ഈ നോഡ് 2 വരയ്ക്കുന്നു ഇത് ഒരു വോൾടേജ് സോഴ്സ് ഞാൻ ഈ വോൾടേജ് സോഴ്സ് ആക്കുന്നു പിന്നെ ഇവിടെ കണക്ട് ചെയ്യുന്നു ഇത് R 1 പിന്നെ ഇത് R 2 ഈ R 2 ലൂടെ ഉള്ള കറന്റ് എന്നത് i 2 പിന്നെ R 1 ലെ i 1 ഇത് i പിന്നെ ഇത് വോൾടേജ് v അപ്പോൾ 1 ന്റെയും 2 ന്റെയും ഇടയിൽ ഉള്ള വോൾടേജ് എന്നത് v തന്നെ ആണ് അപ്പോൾ ഈ v എന്നത് i 1 R 1 ആണ് അതുപോലെ i 2 R2 ഉം ആണ് ഞാൻ ഇത് ക്ലീൻ ആക്കുന്നു അതിന്റെ അർഥം ഓംസ് ലോ യിൽ നിന്നും നമുക്ക് v i1 R1 i2 R2 എന്ന് എഴുതാം അതിനാൽ ഈ ഇക്വേഷനിൽ നിന്നും നമുക്ക് i1 v R1എന്നും പിന്നെ ഇവിടെ i2 v R2 എന്നും എഴുതാം ഇനി KCL അപ്ലൈ ചെയ്യുക ഈ നോഡ് 1 ൽ i i1 i2 ഇനി i1 v R1 പിന്നെ i2 v R2 അത് ഇവിടെ കൊടുക്കുക i1 i2 അപ്പോൾ അത് v R1 v R2 ഇതിൽ i എന്നത് നമുക്ക് v R eq എന്ന് എഴുതാം അതിന്റെ അർഥം നാം ഇത് v R eq എന്ന് ഇവിടെ എഴുതാൻ പോകുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ 1 R eq 1 R1 1 R2 എന്ന് നമുക്ക് എഴുതാം എന്തെന്നാൽ നാം ഈ i എന്നത് v R eq എന്ന് എഴുതുന്നു അപ്പോൾ 1 R eq എന്നത് യഥാർത്ഥത്തിൽ 1 R1 1 R2 ആണല്ലോ അതിന്റെ അർഥം ഇതാണ് ഇവിടെ ഇക്വിവലെന്റ് റെസിസ്റ്റൻസ് equivalent resistance അതിനാൽ നമുക്ക് അറിയാം 1 R eq എന്നത് 1 R1 1 R2 ആണ് ഈ' R eq ആണ് ഇവിടെ ഇക്വിവലെന്റ് റെസിസ്റ്റൻസ് equivalent resistance അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ R eq R1 R2 R1 R2 അപ്പോൾ രണ്ടു റെസിസ്റ്റൻസ് ന്റെ പ്രോഡക്റ്റ് ബൈ അവയുടെ തുക അപ്പോൾ R eq R1 R2 R1 R2 ഇതാണ് ഇക്വേഷൻ 35 ഇനി പൊതുവായി പറയാം N എണ്ണം റെസിസ്റ്ററുകൾ പാരലൽ ആയി വെച്ചാൽ നമുക്ക് 1 R eq 1 R1 1 R2 അങ്ങനെ 1 1 Rn വരെ എന്ന് എഴുതാം അപ്പോൾ ഇവിടെ റേസിപ്രോക്കലുകളുടെ തുക എടുക്കുക പിന്നീട് അതിന്റെ റേസിപ്രോക്കൽ എടുക്കുക അപ്പോൾ 1 R eq 1 R1 1 R2 അങ്ങനെ 1 1 Rn വരെ ഇതാണ് ഇക്വിവലെന്റ് റെസിസ്റ്റൻസ് equivalent resistance ഇനി ഫിഗർ 2 29 ആണ് ഇവിടെ ഇക്വിവലെന്റ് സർക്യൂട് equivalent circuit ഇവിടെ R eq ആണ് ഇക്വിവലെന്റ് സർക്യൂട് equivalent circuit അപ്പോൾ ഈ R eq R1 R2 R1 R2 ഇത് നോഡ് 1 പിന്നെ ഇത് നോഡ് 2 അപ്പോൾ ഈ R eq കുറുകെ വരുന്ന വോൾടേജ് എന്നത് v ആണ് അപ്പോൾ ഈ v എന്നത് i R eq ആണ് അങ്ങനെ i R eq എന്ന് എഴുതിയാൽ കാര്യങ്ങൾ വേഗത്തിൽ മനസിലാക്കാം നോക്കുക അതാണ് ഞാൻ പറഞ്ഞത് v i Req ഇനി ഈ R eq R1 R2 R1 R2 ആണ് നാം ഈ Req എന്നത് ഇവിടെ ഈ ഇക്വേഷൻ 38 ൽ കൊടുക്കുന്നു ഇനി ഇക്വേഷൻ 48 ഇക്വേഷൻ 31 കൊടുക്കുക നമുക്ക് അത് കിട്ടും നമുക്ക് i 1 എന്നത് R2 R1 R2 i നോക്കുക നാം ഇക്വേഷൻ 31 ലേക്ക് പോയാൽ ഇതാണ് അത് അത് i1 vR1 പിന്നെ i2 v R2 നാം അവിടെ വന്നാൽ i1 എന്നത് vR1 ആണ് അത് തന്നെ നമുക്ക് R2 R1 R2 എന്നും കിട്ടി അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്നും v i R1R2 R1 R2 പിന്നെ ഈ ഇക്വേഷനിൽ നിന്നും നമുക്ക് v r R1 കിട്ടും അത് മറ്റൊന്നും അല്ല i 1 ആണ് അതിൽ നിന്നും നമുക്ക് എഴുതാം R2 R1 R2 i അതെ കാര്യം തന്നെ ആണ് ഇവിടെയും വരിക i1 R2 R1 R2 I ഇവിടെ ഈ ഇക്വേഷനെ R 1 വച്ച് ഡിവൈഡ് ചെയ്യുക അപ്പോൾ v R1 R2 R1 R2 i അതുപോലെ i 2 ഈ i2 എന്നത് v R2 ഇനി ഇതിനെ R 2 വെച്ച് ഡിവൈഡ് ചെയ്യുക നമുക്ക് R1 R1 R2 എന്നത് നമുക്ക് R1 R1 R2 i എന്ന് കിട്ടും ഇതിൽ നിന്നും നമുക്ക് i 1 i 2 എന്നിവ നേരെ കിട്ടും ഇപ്പോൾ നമുക്ക് കറന്റ് ഡിവിഷൻ കിട്ടി ഒരു നിമിഷം നിൽക്കുക ഞാൻ ഇത് ക്ലീൻ ആക്കുന്നു അതാണ് ഇക്വേഷൻ 39 അത് i1 R2 R1 R2 i i2 R1 R1 R 2 i അതിന്റെ അർഥം അകെ കറന്റ് എന്നത് ഈ രണ്ട് റെസിസ്റ്ററുകളുടെ ഇടയിൽ പങ്കു വെച്ചു അത് വിപരീത പ്രൊപോർഷൻ ആണ് ഈ ഫിഗർ 28 ലെ സർക്യൂട് ആണ് കറന്റ് ഡിവൈഡർ ഇനി ഈ ഇക്വേഷനിലേക്കു പോയാൽ സോറി ഈ ഫിഗർ 28 ലേക്ക് പോയാൽ ഇത് കറന്റ് ഡിവൈഡർ ആണ് ഇതാണ് ഈ ഇക്വേഷൻ 31 ൽ കാണിച്ചത് കറന്റ് വലുതാണെൽ ഈ റെസിസ്റ്റൻസ് ഇവിടെ ചെറുതായിരിക്കും ഇനി അങ്ങേ അറ്റത്തെ കേസിൽ ഈ R 2 0 ആണെങ്കിൽ ഈ സർക്യൂട് എന്നത് ഫിഗർ 30 പോലെ ആകും അപ്പോൾ മുഴുവൻ കറന്റ് ഉം ഇത് വഴി പാസ് ചെയ്യും ഈ R 2 0 ആണെങ്കിൽ R eq R1 R2 R1 R2 ആണല്ലോ അതും 0 ആകും അത് ഒരു ഷോർട് സർക്യൂട് ആണ്